എഞ്ചിനീയർമാർക്കുള്ള ഡാറ്റാ സയൻസിലെ ഈ കോഴ്സിലേക്ക് സ്വാഗതം എന്റെ പേര് രാഘുനാഥൻ റെംഗസ്വാമി ഞാൻ മദ്രാസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസറാണ് മദ്രാസിലെ ഐ ടിയിൽ നിന്നുള്ള എന്റെ സഹപ്രവർത്തകനായ പ്രൊഫസർ ശങ്കർ നാരസിംഹനുമായി ഞാൻ ഈ കോഴ് സ് പഠിപ്പിക്കും ഡോക്ടർ ഹെമാന്ത് കുമർ ടാന്നരു മിസ് ഷ്വെറ്റ ശ്രീധർ എന്നിവരാണ് ഈ കോഴ് സിന്റെ അധ്യാപന സഹായികൾ വളരെ ഹ്രസ്വമായ ഈ വീഡിയോയിൽ കോഴ് സ് തത്ത്വചിന്തയെക്കുറിച്ചും ഈ കോഴ് സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകാമെന്ന പ്രതീക്ഷകളെക്കുറിച്ചും ഞാൻ സംസാരിക്കാൻ പോകുന്നു കോഴ്സിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആദ്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് തുടക്കക്കാർക്കുള്ള ഡാറ്റാ വിശകലനത്തിന്റെ ആദ്യ കോഴ്സ് ഇതാണ് അതിനാൽ വളരെക്കാലമായി ഇത് പരിശീലിക്കാത്ത ഡാറ്റാ അനലിറ്റിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഇത് എന്നിരുന്നാലും ഇത് തുടക്കക്കാർക്കുള്ള ഒരു ഡാറ്റാ വിശകലന കോഴ്സാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇത് ഇപ്പോഴും ഗണ്യമായ അളവിലുള്ള ഗണിതശാസ്ത്ര ആശയങ്ങളും കൂടുതൽ ആശയപരമായ ആശയങ്ങളും ആയിരിക്കും അത് നാം പഠിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് ഒരു ആമുഖ കോഴ്സാണെങ്കിലും ഡാറ്റാ അനലിറ്റിക്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പങ്കെടുക്കുന്നവർ ഈ കോഴ് സിൽ നിന്ന് പുറത്തുപോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ഗണ്യമായ പരിശ്രമവും പഠനവുമാണ് അനലിറ്റിക്സ് ചെയ്യുന്നതിന് ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി അൽഗോരിതം ഉണ്ട് അതിനാൽ ഈ കോഴ്സിന്റെ ഭാഗമായി ഡാറ്റാ സയൻസ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആശയങ്ങളും വിശദീകരിക്കാൻ ഉചിതമായപ്പോഴെല്ലാം ഞങ്ങൾ പരമാവധി ശ്രമിക്കും അതിനാൽ ആ അർത്ഥത്തിൽ വ്യത്യസ്ത ഡാറ്റാ വിശകലന പ്രശ്നങ്ങളും അൽഗോരിതംസും മനസിലാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ചട്ടക്കൂട് നൽകാൻ ശ്രമിക്കുന്നു കൂടാതെ ഉയർന്ന തലത്തിലുള്ള ഡാറ്റ അനലിറ്റിക് പരിവർത്തനം ചെയ്യുന്നതിന് ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കുകയും ഘടനാപരമായ സമീപനം നൽകുകയും ചെയ്യും പരിഹാരങ്ങൾക്കായി നിർവചിക്കപ്പെട്ട വർക്ക്ഫ്ലോ എന്ന് ഞങ്ങൾ വിളിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രശ്ന പ്രസ്താവനകൾ അതിനാൽ നിങ്ങൾ ഒരു പ്രശ്ന പ്രസ്താവന എടുത്ത് ചെറിയ ഘടകങ്ങളിലേക്ക് എങ്ങനെ തകർക്കാമെന്നും ഉചിതമായ അൽഗോരിതം ഉപയോഗിച്ച് പരിഹരിക്കാമെന്നും കാണുക അതിനാൽ പങ്കെടുക്കുന്നവർ ഈ കോഴ്സിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആശയപരമായ തലത്തിലാണ് ഇവ ഡാറ്റാ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് പഠിപ്പിക്കുന്നതിന് നിങ്ങൾ ഒരു പ്രത്യേക ഭാഷയിൽ കോഡിംഗ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിരവധി സാധ്യതകളുണ്ട് ഞങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയായി R ഉപയോഗിക്കാൻ പോകുന്നു അതിനാൽ ഈ കോഴ്സിന്റെ ഭാഗമായി R അവതരിപ്പിക്കുകയും ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ നിർണായകമായ R ന്റെ വശങ്ങളിൽ ഊന്നൽ നൽകുകയും ചെയ്യും അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കോഴ്സ് മെറ്റീരിയലിന് ആവശ്യമായ കമാൻഡുകൾ മതിയായ വിശദമായി കൈകാര്യം ചെയ്യും അതിനാൽ ഡാറ്റാ സയൻസ് പഠിക്കുന്നതിന് ഒരു പ്രോഗ്രാമിംഗ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് ഇതിനെല്ലാം പിന്നിലെ ഗണിതശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ലീനിയർ ആൾജിബ്രയിലെ പ്രധാന ആശയങ്ങൾ ഞങ്ങൾ വിവരിക്കും മെഷീൻ ലേണിംഗിനെക്കുറിച്ചും ഡാറ്റാ സയൻസ് അൽഗോരിതംസിനെക്കുറിച്ചും നന്നായി മനസ്സിലാക്കുന്നതിന് ഞങ്ങൾ ചിന്തിക്കുകയോ വിമർശനാത്മകമോ ആയിരിക്കും ഡാറ്റാ സയൻസിന് പ്രസക്തമായ സ്ഥിതിവിവരക്കണക്കുകളും ഞങ്ങൾ പഠിപ്പിക്കും ഇതിനപ്പുറം മെഷീൻ ലേണിംഗ് അൽ ഗോരിതംസിൽ നേരിട്ട് പ്രസക്തമായ ഒപ്റ്റിമൈസേഷൻ ആശയങ്ങളെയും ഒപ്റ്റിമൈസേഷനെയും കുറിച്ചുള്ള മൊഡ്യൂളുകളും ഉണ്ടാകും തിരഞ്ഞെടുത്ത മെഷീൻ ലേണിംഗ് അൽ ഗോരിതം മനസിലാക്കാൻ എളുപ്പമുള്ള ആശയപരവും വിവരണങ്ങളും ഞങ്ങൾ നൽകും കൂടാതെ ഒരു മെഷീൻ ലേണിംഗ് അൽ ഗോരിതം പഠിപ്പിക്കുമ്പോഴെല്ലാം മറ്റൊരു പ്രഭാഷണവുമായി ഞങ്ങൾ ഇത് പിന്തുടരും ഒരു പ്രശ്ന പ്രസ്താവനയ് ക്കായി ഒരു അൽ ഗോരിതം പ്രായോഗികമായി നടപ്പിലാക്കുന്നത് പ്രകടമാണ് പ്രകടനം നടക്കുമെന്ന് ഞങ്ങൾ ആർ പ്രോഗ്രാമിംഗ് പ്ലാറ്റ് ഫോമായി ഉപയോഗിക്കും ഈ കോഴ്സിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കോഴ് സ് എന്തിനെക്കുറിച്ചല്ല എന്ന് മനസിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ വളരെ നൂതന ഡാറ്റാ അനാലിസിസ് പ്രാക്ടീഷണറാണെങ്കിൽ ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ വിപുലമായ തലങ്ങളിൽ പ്രസക്തമായ മറ്റ് കോഴ്സുകളുണ്ട് ഈ കോഴ് സ് ആരെങ്കിലും ഈ ഡാറ്റാ സയൻസ് രംഗത്ത് പ്രവേശിക്കുന്നതിനുള്ള അടിസ്ഥാന തലത്തിലാണ് ഈ വിഭാഗത്തിലെ ആളുകൾക്ക് കൂടുതൽ അനുയോജ്യമായ മെഷീൻ ലേണിംഗിൽ ഞങ്ങൾ പിന്നീട് ഒരു കോഴ് സ് പഠിപ്പിക്കും ഈ കോഴ് സ് ഒരു വലിയ ഡാറ്റയെക്കുറിച്ചല്ല മാത്രമല്ല മാപ്പ് റെഡ്യൂസ് ഹഡൂപ്പ് ചട്ടക്കൂടുകൾ തുടങ്ങിയവ പോലുള്ള വലിയ ഡാറ്റാ ആശയങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്നില്ല ഈ കോഴ് സ് ഡാറ്റാ അനലിറ്റിക്സിന്റെ ഗണിതശാസ്ത്ര വശത്തെക്കുറിച്ചാണ് അതിനാൽ ഞങ്ങൾ അൽ ഗോരിതംസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു കൂടാതെ ഈ അൽ ഗോരിതംസിന് അടിവരയിടുന്ന അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ ആർ ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ് ഫോമായി ഉപയോഗിക്കുമ്പോൾ ഇത് ആഴത്തിലുള്ള ആർ പ്രോഗ്രാമിംഗ് കോഴ് സല്ല അവിടെ ആർ പ്രോഗ്രാമിംഗ് പ്ലാറ്റ് ഫോമിലെ വളരെ നൂതന പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അടിസ്ഥാന ഡാറ്റാ സയൻസ് അൽ ഗോരിതം പഠിപ്പിക്കേണ്ടത് പ്രധാനമാണ് ഇപ്പോൾ വൈവിധ്യമാർന്ന മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളുണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നിരവധി സാങ്കേതിക വിദ്യകളുണ്ട് ഒൻപത് ആഴ്ച കോഴ് സിൽ ഞങ്ങൾ ഏറ്റവും പ്രസക്തമായ സാങ്കേതിക വിദ്യകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഡാറ്റാ സയൻസിലെ ആദ്യ കോഴ് സായി ഞങ്ങൾ ഇതിനെ ചിന്തിപ്പിക്കുന്നതിനാൽ മാത്രമല്ല ലീനിയർ ആൾജിബ്ര സ്ഥിതിവിവരക്കണക്കുകളുടെ അടിസ്ഥാന വിഷയങ്ങളും ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഒപ്റ്റിമൈസേഷനും ഉൾക്കൊള്ളുന്ന മതിയായ സമയം ചെലവഴിക്കേണ്ടതുണ്ട് അതിനാൽ അത് കുറച്ച് ആഴ്ച പ്രഭാഷണം നടത്തുന്നു അതിനാൽ ഒരു തുടക്കക്കാരന് ഏറ്റവും പ്രസക്തമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് മെഷീൻ ടെക്നിക്കുകൾ ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നു അതിനാൽ ഡാറ്റാ സയൻസിലെ അടിസ്ഥാന ആശയങ്ങൾ നിങ്ങൾ മനസിലാക്കേണ്ട ഗണിത തത്വങ്ങളെക്കുറിച്ച് ഒരു അടിസ്ഥാന അടിത്തറ നേടുന്നു തുടർന്ന് ഇതെല്ലാം ചില മെഷീൻ ലേണിംഗ് ടെക്നിക്കിൽ നിങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നു അതിനാൽ ഈ ആശയങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ചില മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ നിങ്ങൾ മനസിലാക്കുന്നു കൂടാതെ ഡാറ്റാ സയൻസ് നന്നായി മനസിലാക്കാനും ഇവ ഉപയോഗിക്കാനും കഴിയുന്ന തരത്തിൽ ഞങ്ങൾ ഈ ടെക്നിക്കുകൾ തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് ഉപയോഗമോ താൽപ്പര്യമോ ആയ ചില പ്രശ്നങ്ങൾ അതിനാൽ ഒരു പങ്കാളി ഈ കോഴ്സ് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ എന്ത് ഫലങ്ങൾ പ്രതീക്ഷിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ ഇവ നിങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില വിഭാഗത്തിലുള്ള കഴിവുകളാണ് അതിനാൽ ഘടനാപരമായ ചട്ടക്കൂടിൽ ഡാറ്റാ വിശകലന പ്രശ്നങ്ങൾ വിവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡാറ്റാ വിശകലന പ്രശ് നങ്ങൾ ക്കായി സമഗ്രമായ ചില പരിഹാര തന്ത്രങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമെന്ന് നിങ്ങൾ ഒരിക്കൽ വിവരിക്കുമ്പോൾ വ്യത്യസ്ത തരം ഡാറ്റാ വിശകലന പ്രശ്നങ്ങൾ തരംതിരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക കുറഞ്ഞത് ചില തലങ്ങളിലെങ്കിലും ഉചിതമായ സാങ്കേതിക വിദ്യകൾ നിർണ്ണയിക്കുക ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ വൈവിധ്യമാർന്ന സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കാത്തതിനാൽ നിങ്ങളെ പഠിപ്പിച്ച ടെക്നിക്കുകളുടെ ഗാമുട്ടിനുള്ളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഉചിതമായ ഒരു സാങ്കേതികത തിരിച്ചറിയാൻ കഴിയും ഈ സമയത്ത് അനുമാന മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ഈ സുപ്രധാന ആശയത്തിന് ഞങ്ങൾ emphas ന്നൽ നൽകുന്നു അതിനാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡാറ്റയെ പിന്തുണയ്ക്കുന്നു തുടർന്ന് ആ അനുമാനങ്ങൾ നിങ്ങൾ ഏത് അൽ ഗോരിതം ഉപയോഗിക്കണമെന്ന് നിങ്ങളോട് പറയുന്നു തുടർന്ന് നിങ്ങൾ അൽ ഗോരിതം പ്രവർത്തിപ്പിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും നിങ്ങളുടെ അനുമാനങ്ങൾ സാധൂകരിക്കപ്പെട്ടതാണോയെന്ന് കാണുക അതിനാൽ പ്രശ്നം പരിഹരിക്കുന്നതിന് നിങ്ങൾ നടത്തിയ അനുമാനങ്ങളുമായി നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ഫലങ്ങൾ എങ്ങനെ പരസ്പരബന്ധിതമാക്കാമെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും തുടർന്ന് അത് അർത്ഥമുണ്ടോ എന്ന് നോക്കുക പരിഹാരം അർത്ഥവത്താകുന്നു അതിനാൽ നിരീക്ഷിച്ച ഫലങ്ങളെ അടിസ്ഥാനമാക്കി നിർദ്ദിഷ്ട പരിഹാരത്തിന്റെ ഉചിതത്വം വിഭജിക്കുന്നതിനെക്കുറിച്ചും ആത്യന്തികമായി സംസാരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കുന്നത് അവിടെയാണ് നിങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ടുകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടർന്ന് നിങ്ങൾ എന്തിനാണ് ചെയ്തത് നിങ്ങൾ ചെയ്തത് അതിനാൽ ഞങ്ങൾ മറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു പ്രധാന വശമാണിത് അതിനാൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഈ കോഴ് സിന്റെ എട്ട് ആഴ്ചകളിലൂടെ കടന്നുപോകുകയും ഓരോ ആഴ്ചയും അവസാനം നൽകിയിട്ടുള്ള അസൈൻമെന്റുകളിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഡാറ്റാ സയൻസിന്റെ അടിസ്ഥാനകാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു പ്രധാനപ്പെട്ട ആശയങ്ങളെയും ഗണിതത്തെയും കുറിച്ച് നിങ്ങൾക്ക് ചില അടിസ്ഥാനപരമായ അടിത്തറ ലഭിക്കുന്നു ഡാറ്റാ സയൻസ് മനസിലാക്കാനും കൂടുതൽ സങ്കീർണ്ണമായ അൽ ഗോരിതം കൂടുതൽ സങ്കീർണ്ണമായ ഡാറ്റ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഭാവിയിൽ നിങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ശാസ്ത്ര പ്രശ്നങ്ങൾ അതിനാൽ നിങ്ങൾ എല്ലാവരും ഈ കോഴ് സിൽ നിന്ന് പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കോഴ്സ് പുരോഗമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കാണും